ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള എന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം

ഐഐടി കാൺപൂരിലെ എൻപിടിഇഎൽ മൂക്ക് കോഴ്സിൽ നിന്നാണ് ഞാൻ ഇത് നൽകുന്നത് ടി കാൺപൂരിലെ ഹ്യുമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള രവി ചന്ദ്രൻ ആണ് ഈ ആഴ്ച നമ്പർ 7 മൊഡ്യൂൾ നമ്പർ 5 പ്രഭാഷണ നമ്പർ 41 ഞാൻ മുമ്പത്തേതിൽ പറഞ്ഞതുപോലെ ഈ പ്രത്യേക മൊഡ്യൂളിൽ അഭിമുഖ നൈപുണ്യത്തിന് പ്രസക്തമായ ശരീരഭാഷയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശരീരഭാഷ ഉപയോഗിച്ച് അഭിമുഖത്തിൽ വിജയം നേടുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് വേഗത്തിൽ തിരിച്ചെടുക്കാം മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് നോൺ വെർബൽ സൂചകങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് മെഹ്റാബിയൻ മൂന്ന് പ്രാഥമിക മാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാമർശിച്ചതിൽ നിന്നാണ് ഞാൻ ആരംഭിച്ചത് നമ്മുടെ ഇഷ്ടത്തെയും അനിഷ്ടത്തെയും സൂചിപ്പിക്കുന്ന മധ്യസ്ഥത നമ്മൾ അടുത്ത് പോകുന്നു അല്ലെങ്കിൽ പിന്മാറുന്നു നമ്മുടെ പ്രതികരണശേഷിയുടെയും ആധിപത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഊർജ്ജസ്വലതയുടെ ബോധമാണ് ഉത്തേജനം അത് അധികാരത്തിന്റെ സന്തുലിതാവസ്ഥയാണ് നമ്മുടെ ശരീരഭാഷ നാം വിതരണം ചെയ്യുന്ന രീതിയും ശക്തിയുടെ ഘടനയെ സൂചിപ്പിക്കുന്നു സന്ദർഭം ക്ലസ്റ്റർ മാറ്റം എന്നീ മൂന്ന് സി കൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനാൽ ഒരു വ്യക്തിയുടെ ശരീരഭാഷ നിർണ്ണയിക്കുമ്പോൾ നിങ്ങൾക്ക് നിഗമനത്തിലെത്താൻ കഴിയില്ല നിങ്ങൾ സന്ദർഭം തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ അത് ഗ്രൂപ്പുചെയ്യേണ്ടതുണ്ട് കൂടാതെ വ്യക്തിയുടെ പെരുമാറ്റത്തിലെ ഏത് മാറ്റത്തിലും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ആ സന്ദർഭത്തിൽ ഒരു നുണയനെ തിരിച്ചറിയുന്നതിന്റെ വശം ഞങ്ങൾ പരിശോധിച്ചു തുടർന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നതിന്റെ വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ച അവിടെ ഞാൻ പ്രത്യേകിച്ചും നാല് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വെല്ലുവിളി നിറഞ്ഞതാണെന്ന് സൂചിപ്പിക്കുന്നു കാരണം അത് അവ്യക്തമാണ് അത് തുടർച്ചയായതാണ് അത് മൾട്ടിചാനൽ ആണ് അത് സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവസാനം നിങ്ങൾ സംയോജിപ്പിക്കേണ്ട ഒരൊറ്റ ഘടകം നോക്കി നിഗമനങ്ങളിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഉപസംഹരിച്ചു താപനില കാലാവസ്ഥ കാലാവസ്ഥ തുടങ്ങിയ മറ്റെല്ലാ ബാഹ്യ ഘടകങ്ങളും പരിഗണിക്കുക തുടർന്ന് വ്യക്തിയുടെ രൂപം നോക്കി നിങ്ങൾ നിഗമനങ്ങളിൽ എത്തരുതെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കാരണം അത് വഞ്ചനാപരമായിരിക്കാം ശരീരഭാഷയുടെ കാര്യത്തിൽ കഴിവുള്ള ആശയവിനിമയക്കാരായി മാറാനും വികസിപ്പിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തുചെയ്യണം നിഷേധാത്മക ഭാവങ്ങൾ നിയന്ത്രിക്കുന്നതിന് നിങ്ങൾക്ക് അവബോധം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഈ കോഴ്സിലൂടെ അവബോധം സൃഷ്ടിക്കപ്പെട്ടു പ്രത്യേകിച്ചും ഈ ആഴ്ച പൂർണ്ണമായ ശ്രദ്ധ നിങ്ങൾക്ക് അത്തരം അവബോധം നൽകുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ പരിസ്ഥിതിയിൽ നിന്ന് കാര്യങ്ങൾ തുറന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നത് തുടരുക വിശാലമായ നോൺ വെർബൽ പെരുമാറ്റങ്ങൾ വികസിപ്പിക്കുക പ്രത്യേകിച്ച് പോസിറ്റീവ് ശരീരഭാഷയുമായി ബന്ധപ്പെട്ടവ പുഞ്ചിരി തുറന്ന ഭാവം മുന്നോട്ടുള്ള മെലിഞ്ഞ സ്പർശനം കണ്ണ് സമ്പർക്കം ആംഗ്യങ്ങൾ തലകൾ എന്നിവ പോലുള്ള പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് പെരുമാറ്റത്തിന്റെ വശങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും വികസിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിന്റെ അവസാനം ഞാൻ പറഞ്ഞു അഭിമുഖങ്ങൾക്ക് പ്രസക്തമായ ശരീരഭാഷയുടെ ആവിഷ്കാരങ്ങൾ നമ്മൾ നോക്കും ഇപ്പോൾ ഈ മൊഡ്യൂൾ ആരംഭിക്കുന്നതിന് മുമ്പ് അഭിമുഖത്തിനായി ശരീരഭാഷ വികസിപ്പിക്കുന്നത് അഭിമുഖം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ആരംഭിക്കില്ലെന്നും അഭിമുഖത്തിന് ഒരു ദിവസം മുമ്പ് ആരംഭിക്കില്ലെന്നും ഞാൻ നിങ്ങളോട് പറയണം ഇത് നിങ്ങൾക്കായി ഇതിനകം തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു കാരണം ഇത് അഭിമുഖത്തിന് വളരെ മുമ്പുതന്നെ ആരംഭിക്കുന്നു വാസ്തവത്തിൽ ഓരോ ദിവസവും നിങ്ങൾ മനുഷ്യ ആശയവിനിമയത്തിലായിരിക്കുമ്പോഴെല്ലാം അഭിമുഖത്തിനായി നിങ്ങളുടെ ശരീരഭാഷ വികസിപ്പിക്കാനുള്ള അവസരമാണ് ഇത് നല്ല പോസിറ്റീവ് ഭാഷയും നെഗറ്റീവ് പോസിറ്റീവ് ഭാഷയും എന്താണെന്ന് നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമായ അഭിമുഖത്തിനായി നിങ്ങൾ എല്ലായ്പ്പോഴും തയ്യാറെടുക്കുകയാണ് അതിനാൽ നിങ്ങൾ ശരീരഭാഷ പോലെയുള്ള ഒരു വീഡിയോ കാണുന്നതിന് ഒരു ദിവസം മുമ്പ് നിങ്ങൾ എല്ലാ ശരീരഭാഷ കഴിവുകളും വികസിപ്പിക്കുമെന്ന് കരുതരുത് അതിനാൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുകയും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിലുടനീളം ശരീരഭാഷയുടെ വശങ്ങൾ വികസിപ്പിക്കുകയും ഒരു അഭിമുഖം പോലുള്ള സാഹചര്യത്തിന് എല്ലായ്പ്പോഴും നിങ്ങൾ തയ്യാറാകുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന എന്റെ ആദ്യ മുൻകൂർ മുന്നറിയിപ്പാണിത് ഇത് ഇതിനകം ആരംഭിച്ചുവെന്ന് ഓർക്കുക അതിനാൽ നിങ്ങൾക്ക് കോറിലേറ്റർ ലഭിക്കുമ്പോൾ അല്ല നിങ്ങൾക്ക് കോറിലേറ്റർ ലഭിക്കുന്ന നിമിഷം നിങ്ങളുടെ ശരീരഭാഷ എങ്ങനെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാമെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കോറിലേറ്റർ ലഭിക്കുന്ന നിമിഷം ആദ്യം നിങ്ങൾ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതായത് ആ നിമിഷം മുതൽ നിങ്ങൾ അഭിമുഖ ഹാളിൽ നിന്ന് പുറത്തുവരുന്നതുവരെ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം കോൾ വരുമ്പോൾ ശാന്തത പാലിക്കുക സംയമനം പാലിക്കുക പരിഭ്രാന്തരാകരുത് അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസത്തിലാകരുത് രണ്ടും അപകടകരമാണ് വളരെയധികം പരിഭ്രാന്തരാകുകയും ഭയപ്പെടുകയും തുടർന്ന് മോശം പ്രകടനം നിങ്ങളെ വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസത്തിലാകുകയും ചെയ്യും അത് നിങ്ങൾക്ക് വളരെ അഹങ്കാരം തോന്നും പഴഞ്ചൊല്ല് പറയുന്നതുപോലെ അഹങ്കാരം വീഴുന്നതിന് മുമ്പ് പോകുന്നു നിങ്ങൾ വളരെയധികം അഹങ്കാരത്തോടും അഹങ്കാരത്തോടും കൂടി പോയാൽ നിങ്ങൾ തീർച്ചയായും ഒരു വലിയ വീഴ്ച വരുത്തും നിങ്ങൾ അപമാനിക്കപ്പെടാം നിങ്ങൾ അപമാനിക്കപ്പെടാം അവർ തിരയുന്ന സ്ഥാനാർത്ഥിയല്ല നിങ്ങളെന്ന് നിങ്ങളോട് നേരിട്ട് പറഞ്ഞേക്കാം എന്നാൽ നിങ്ങൾ പരിഭ്രാന്തനാണെങ്കിൽ അത് സ്വാഭാവികവും പോസിറ്റീവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ സൃഷ്ടിക്കാൻ ഒരു നിശ്ചിത അളവിലുള്ള പരിഭ്രാന്തി ആവശ്യമാണെന്ന് ഞാൻ മുമ്പത്തെ ചില പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് അധിക ശക്തിയോടും അധിക ആത്മവിശ്വാസത്തോടും കൂടി പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കും അത്തരം ഭയം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ വിജയം ഉറപ്പാക്കും അതിനാൽ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അഭിമുഖത്തിന് നന്നായി തയ്യാറെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും അതിനാൽ ശരീരഭാഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഞാൻ ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നില്ല പക്ഷേ സമഗ്രത നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും തുടർന്ന് നിങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന നെഗറ്റീവ് ചിന്തകരിൽ നിന്ന് നിങ്ങൾ അകന്നുനിൽക്കണം പ്രത്യേകിച്ചും അഭിമുഖത്തിന് മുമ്പുള്ള രാത്രി അഭ്യുദയകാംക്ഷിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക നിങ്ങളുടെ അഭ്യുദയകാംക്ഷിയുമായി സ്കൈപ്പിലെ വ്യക്തിയുമായി സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തിയെ അറിയാമെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് നിശ്ചയിക്കുക ആ വ്യക്തിയെ കണ്ടുമുട്ടുക എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാനത്തിന് ഏറ്റവും മികച്ചതെന്ന് അവരോട് പറയുക അതിനാൽ ആ വ്യക്തിക്ക് നിങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കാനും തുടർന്ന് നിങ്ങളെ ക്രിയാത്മകമായി പ്രോത്സാഹിപ്പിക്കാനും കഴിയും തുടർന്ന് ഈ വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസം അഭിമുഖം നടത്തുന്നയാളെ നിങ്ങൾ ജോലിക്ക് അനുയോജ്യനാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ അത് സ്വയം വിശ്വസിക്കണം അതിനാൽ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കണം ഇത് ലഭിക്കാതെ നിങ്ങൾ തിരികെ വരരുത് അതിനാൽ കൊലയാളി സഹജാവബോധം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അഭിമുഖത്തിന്റെ ഉദ്ദേശ്യം തന്നെ നോക്കുക നിങ്ങൾ നോക്കുകയാണെങ്കിൽ തൊഴിലുടമകൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിത്വ ആശയവിനിമയ കഴിവുകൾ വിലയിരുത്തുന്നു നിങ്ങളുടെ രൂപം നിങ്ങളുടെ മനോഭാവം നിങ്ങൾ ഓർഗനൈസേഷനിൽ ചേരുമോ എന്ന് അവർ നിങ്ങളുടെ ശക്തിയും ബലഹീനതയും അറിയാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് അവർ നിങ്ങളുടെ ബയോഡാറ്റ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വ ആശയവിനിമയ വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പട്ടികപ്പെടുത്തിയ ആദ്യ നാല് ഗുണങ്ങൾ നിങ്ങളുടെ രൂപം നിങ്ങളുടെ മനോഭാവം അവ പൂർണ്ണമായും സോഫ്റ്റ് സ്കിൽസുമായി ബന്ധപ്പെട്ടതാണ് അവയിൽ കുറഞ്ഞത് മൂന്നെണ്ണമെങ്കിലും നിങ്ങളുടെ ശരീരഭാഷയുമായി ബന്ധപ്പെട്ടതാണ് സോഫ്റ്റ് സ്കിൽസിന്റെ കാര്യത്തിൽ അവർ ശക്തമായ തൊഴിൽ ധാർമ്മികത പോലുള്ള മറ്റ് ഗുണങ്ങൾക്കായി നോക്കുന്നു അതിനാൽ ഇത് മൃദുവായ വൈദഗ്ധ്യവും നിങ്ങളുടെ ശരീരഭാഷയുടെ ശക്തമായ ആശയവിനിമയ വൈദഗ്ധ്യ പ്രചോദന സംരംഭവും നേതൃത്വ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് സംഘടനാ വൈദഗ്ധ്യ പൊരുത്തപ്പെടുത്തൽ വഴക്കം ടീമുകളുടെ പരസ്പര ഗുണങ്ങളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് വാക്കാലുള്ളതും അല്ലാത്തതുമായ പെരുമാറ്റ സമയ മാനേജ്മെന്റ് കഴിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ബന്ധപ്പെടുത്താൻ കഴിയും സമ്മർദ്ദ മാനേജ്മെന്റ് കഴിവുകൾ സൌഹൃദപരവും പ്രവേശനക്ഷമതയുള്ളതുമായ തന്ത്രങ്ങൾ നയതന്ത്ര വൈരുദ്ധ്യ പരിഹാര കഴിവുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ സൂക്ഷ്മത കാണിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഇപ്പോൾ ഇവയെല്ലാം സോഫ്റ്റ് സ്കിൽസിന്റെയും വ്യക്തിത്വ വികസനത്തിന്റെയും കാര്യത്തിൽ നമ്മൾ മനസിലാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ശരീരഭാഷയുടെ കാര്യത്തിൽ നിങ്ങളെ തിരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്നതിൽ അഭിമുഖം നിർണായകമാകും അതിനാലാണ് നിങ്ങൾ ഒരു നല്ല ആദ്യ മതിപ്പ് ഉണ്ടാക്കേണ്ടത് ഫസ്റ്റ് ഇംപ്രഷനുകൾ പലപ്പോഴും യുക്തിസഹമായതിനേക്കാൾ വളരെ കൂടുതൽ കണക്കാക്കപ്പെടുന്നു അതിനാൽ ചിലപ്പോൾ ആളുകൾ ഫസ്റ്റ് ഇംപ്രഷൻ നല്ല ഇംപ്രഷനാണെന്ന് പറയുന്നു നിങ്ങൾക്ക് അത് മാറ്റാൻ ശ്രമിക്കാം അത് മികച്ചതാക്കാൻ കഴിയും എന്നാൽ അഭിമുഖം പോലുള്ള സാഹചര്യങ്ങളിൽ മിക്കപ്പോഴും ഫസ്റ്റ് ഇംപ്രഷൻ അവസാനത്തെ ഇംപ്രഷനാണ് ആദ്യത്തെ രണ്ട് മിനിറ്റോ അതിൽ കൂടുതലോ നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ നോക്കി അവർ ഉടനടി അവരുടെ നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്നു അഭിമുഖത്തിന്റെ ഫലം പ്രധാനമായും നിങ്ങളുടെ വിഷയത്തിലെ ആദ്യ അഞ്ച് മിനിറ്റുകളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭാവത്തെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ മാർക്കുകളും നിങ്ങളുടെ അനുഭവവുമാണ് നിങ്ങളെ അഭിമുഖത്തിലേക്ക് നയിച്ചത് എന്നാൽ സോഫ്റ്റ് സ്കിൽസ് ആണ് നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് സോഫ്റ്റ് സ്കിൽസിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ശരീരഭാഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അഭിമുഖത്തിൽ വിജയം നേടാൻ നിങ്ങളെ സഹായിക്കും ശരീരഭാഷയുടെയും മൃദുവായ കഴിവുകളുടെയും സമയനിഷ്ഠയുടെ അഞ്ച് പ്രധാന വശങ്ങൾ മനസ്സിൽ വയ്ക്കുക അതിനാൽ ഇവിടെ മൃദുവായ വൈദഗ്ധ്യവും നിങ്ങളുടെ മനസ്സും പ്രധാനമാണ് വസ്ത്രധാരണം ഹസ്തദാനം ശരീരഭാഷ എന്നിവ നിങ്ങളുടെ മൊത്തത്തിലുള്ള കൈനെസ്തെറ്റിക്സ് നിങ്ങളുടെ പോസ്ചർ ആംഗ്യം മുതലായവയും ഉത്സാഹവും അതിനാൽ നിങ്ങൾ എത്രത്തോളം ആവേശഭരിതരാണെന്ന് നിർണ്ണയിക്കുന്നത് അഭിമുഖം നടത്തുന്നവർക്ക് എത്രത്തോളം ആവേശഭരിതരാകാൻ കഴിയുമെന്ന് നിർണ്ണയിക്കും സമയത്തിന് മുമ്പ് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കേണ്ട വ്യക്തിഗത സമയനിഷ്ഠ ഈ വശങ്ങൾ നോക്കാം അതിനാൽ അത് സ്റ്റേഷനു പുറത്താണെങ്കിൽ ട്രെയിൻ വൈകിയേക്കാം എന്നതിന്റെ ഒരു ദിവസം മുമ്പ് പോലും നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അപകടം സംഭവിക്കാം കൃത്യസമയത്ത് അവിടെ എത്താതിരിക്കാൻ എന്തെങ്കിലും സംഭവിക്കാം നിങ്ങൾ അഭിമുഖത്തെക്കുറിച്ച് ഗൌരവമുള്ളവരാണെങ്കിൽ നിങ്ങൾ സമയത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരിക്കണം സാധ്യമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി സ്ഥലം കാണുകയും അവിടെ സ്വയം പരിചയപ്പെടുകയും ചെയ്യാം പ്രത്യേകിച്ച് അതിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരെ പരിചയപ്പെടുത്താൻ പോകുന്ന ആളുകളെ അറിയുക നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയുമെങ്കിൽ അഭിമുഖത്തിന് മുമ്പ് ബോസ് പോലും നിങ്ങളോട് അനൌപചാരിക രീതിയിൽ സംസാരിച്ചേക്കാം എന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പ് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് എത്തിച്ചേരാൻ എടുക്കുന്നതെന്തും ആകട്ടെ കാരണം ഒരു ജോലി അഭിമുഖത്തിന് വൈകുന്നത് ഒരിക്കലും വൈകിയുള്ള വരവ് മാത്രമല്ല നിങ്ങൾ ഒരു പ്രൊഫഷണലാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നുവെന്ന് അവർ എല്ലായ്പ്പോഴും ചിന്തിക്കും അവസാന നിമിഷം പതിനൊന്നാം മണിക്കൂറിൽ നിങ്ങൾ എന്തിനാണ് ഇത് ആസൂത്രണം ചെയ്തതെന്നും സാധ്യമെങ്കിൽ അഭിമുഖ ഹാളിലെത്തുന്നതിനുമുമ്പും വിശ്രമമുറിയിൽ നിർത്തുക അതിനാൽ ഇത് വീണ്ടും പ്രധാനമാണ് നിങ്ങൾ വൈകിയോ കൃത്യസമയത്തോ എത്തുന്നതിനുപകരം കുറച്ച് അധിക സമയം സൂക്ഷിക്കുക ഇന്റർവ്യൂ ഹാളിലേക്ക് തിടുക്കത്തിൽ പോകുക വിശ്രമമുറിയിൽ കുറച്ച് സമയം സൂക്ഷിക്കുക നിങ്ങളുടെ മുടി ചീകിയിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക മേക്കപ്പ് പുതുമയുള്ളതാണെന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ നിങ്ങൾ തിടുക്കത്തിൽ വരികയും നിങ്ങൾ വിയർക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ മുഖം സൌമ്യമായി കഴുകാം തുടർന്ന് അത് തുടച്ച് പുതുമയുള്ളതായി കാണുക നിങ്ങൾ എത്തുമ്പോൾ പുറത്തോ അകത്തോ പോലും കാത്തിരിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾ ആദ്യം ആരെ കണ്ടാലും നിങ്ങൾ പുഞ്ചിരിക്കുകയും സുപ്രഭാതം എന്ന് പറയുകയും ചെയ്യുക അതിനാൽ ഈ അഭിവാദ്യം വളരെ സ്വാഭാവികമായി വരണം ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അഭിമുഖ വേദിയിൽ എത്തുമ്പോൾ നിങ്ങളോട് ഇരിക്കാൻ കാത്തിരിക്കാനും തുടർന്ന് സീറ്റ് വലിച്ചിടാതിരിക്കാനും ആവശ്യപ്പെട്ടാൽ അത് മാന്യമായി എടുക്കുക ലഭ്യമാണെങ്കിൽ ഒരു മാഗസിൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചില കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കുറിപ്പുകൾ വേഗത്തിൽ നോക്കുക പക്ഷേ അത് ഒരു പത്രമോ മറ്റോ ആണെങ്കിൽ അത് നിങ്ങളുടെ മുഖം മൂടുന്നതിനാൽ ഒരു പത്രം വായിക്കരുത് അതിനാൽ നിങ്ങൾ കണ്ണുമായി സമ്പർക്കം നിലനിർത്തേണ്ടതുണ്ട് നിങ്ങൾ ആളുകളുമായി സംസാരിക്കാൻ പുഞ്ചിരിക്കേണ്ടതുണ്ട് അതിനാൽ അത് ശരിക്കും ഒരുതരം ബൌദ്ധിക രൂപം നൽകുന്നില്ല അതിനാൽ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വാഗ്ദാനം ചെയ്താൽ മാന്യമായി നിരസിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുന്നു അതിനാൽ ആരോ അത് എടുത്ത് നിങ്ങൾക്ക് കാപ്പി നൽകുന്നു തുടർന്ന് യാദൃശ്ചികമായി നിങ്ങൾ നന്നായി വസ്ത്രം ധരിച്ച പുതിയതായി ധരിച്ച വസ്ത്രത്തിൽ അത് നിങ്ങളുടെ കോട്ടിൽ ഒഴിച്ചു അതിനാൽ നിങ്ങൾ ഇപ്പോൾ അത് തെറിപ്പിച്ചു നിങ്ങൾക്ക് അത് കഴുകാൻ ഒരു വഴിയുമില്ല അല്ലെങ്കിൽ നിങ്ങൾ വസ്ത്രത്തിൽ അത്തരം ടീ സ്ട്രെയിൻ കോഫി സ്ട്രെയിൻ ഉപയോഗിച്ച് പോകുന്നു അത് ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കാൻ പോകുന്നില്ല അതിനാൽ ആ റിസ്ക് എടുക്കരുത് ആളുകളെ തുറിച്ചുനോക്കരുത് അതിനാൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെങ്കിലും സൌമ്യമായി അവരെ തുറിച്ചുനോക്കരുത് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്താൻ കാത്തിരിക്കരുത് ഇത് നിങ്ങളുടെ എതിരാളികളെ വലുതാക്കാൻ നിങ്ങൾക്ക് അവസരം നൽകും പിന്നീട് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്ക് നിങ്ങളുടെ നന്മയ്ക്കായി ഉപയോഗിക്കാം നിങ്ങളുടെ ശരീരഭാഷയെക്കുറിച്ച് എല്ലായ്പ്പോഴും ബോധവാന്മാരായിരിക്കുക കാരണം നിങ്ങൾ ഇന്റർവ്യൂ ചേംബർ ഇന്റർവ്യൂ റൂമിലേക്ക് പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീരഭാഷ പ്രധാനമാകൂ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ നിങ്ങളെ പുറത്തുള്ള വേദിയിൽ ചിലപ്പോൾ മറഞ്ഞിരിക്കുന്ന ക്യാമറകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ കോർപ്പറേറ്റ് ഓഫീസുകളിൽ ക്യാമറകൾ ദൃശ്യമാകാത്ത സ്ഥലങ്ങളിൽ ഇരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന മതിലുകളുണ്ട് പക്ഷേ മതിലുകൾ തന്നെ നിങ്ങൾക്ക് അതാര്യമാണെന്ന് തോന്നുന്നു പക്ഷേ അത് സുതാര്യമാണ് തുടർന്ന് മറുവശത്ത് സൈക്കോളജിസ്റ്റ് ഇരിക്കുകയും നിങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്തേക്കാം അതിനാൽ സൈക്കോളജിസ്റ്റ് നിങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേറ്റീവ് പെരുമാറ്റം കാണുകയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ തൊഴിലുടമയ്ക്ക് റിപ്പോർട്ട് ചെയ്യും യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ ചേമ്പറിൽ പ്രവേശിക്കുന്നതിന് മുമ്പുതന്നെ കാത്തിരിപ്പ് മുറിയിൽ പ്രകടിപ്പിച്ച നിങ്ങളുടെ നിഷേധാത്മക പെരുമാറ്റം കാരണം നിങ്ങൾ മുമ്പ് നിരസിക്കപ്പെട്ടിരിക്കാം ഇപ്പോൾ വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾ അഭിമുഖ വിജയത്തിനായി വസ്ത്രം ധരിക്കണം കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വാക്ക് പറയുന്നതിനുമുമ്പ് നിങ്ങളുടെ രൂപം ധാരാളം സംസാരിക്കും ഇത് നിങ്ങൾ നന്നായി സജ്ജീകരിച്ചിരിക്കുന്നുവെന്നും വിശദാംശങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്നും അവർക്ക് ഒരു തോന്നൽ നൽകുന്നു സാധാരണയായി നിങ്ങൾ നന്നായി വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും സുഖകരമാണെന്നും നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുണ്ടെന്നും നിങ്ങൾ മനോഹരമായി കാണപ്പെടുമെന്നും തുടർന്ന് നിങ്ങൾ പുഞ്ചിരിക്കുമെന്നും തോന്നുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ യാഥാസ്ഥിതികരായിരിക്കാനും പരമ്പരാഗതമായിരിക്കാനും ശ്രമിക്കുക അതിനാൽ അൽപ്പം ആകർഷകമായി തോന്നുന്ന കാര്യങ്ങൾ അൽപ്പം തെളിച്ചമുള്ളതും ട്രാക്കിൽ നിന്ന് കുറച്ച് അകലെയുള്ളതും പാരമ്പര്യേതരവുമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ സാധാരണയായി ഔപചാരിക സന്ദർഭങ്ങളിലെന്നപോലെ നിങ്ങൾ ഔപചാരിക ട്രൌസറും ഷർട്ടും ധരിച്ച് കോട്ട് കൊണ്ട് കെട്ടിയിടാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ജീൻസും ടി ഷർട്ടും പോലെ പരീക്ഷിക്കുന്നതിനുപകരം അത് സാരിയോ സൽവാറോ ചൂരിദാറോ ആകട്ടെ സുരക്ഷിതവും യാഥാസ്ഥിതികവും പരമ്പരാഗതവുമായത് എല്ലായ്പ്പോഴും സുരക്ഷിതമാണ് കാരണം നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന രീതി കാണാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ചല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തിനനുസരിച്ചാണ് നിങ്ങൾ വസ്ത്രം ധരിക്കേണ്ടത് എന്നത് പ്രധാനമാണ് അതിനാൽ ചിലപ്പോൾ നിങ്ങൾ സമൂഹത്തിൽ വളരെ സമ്പന്നരായിരിക്കാം അതിനാൽ നിങ്ങൾ വളരെ സമ്പന്നനാണെന്ന് അവരെ കാണിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ വളരെ ആഡംബരപൂർവ്വം വസ്ത്രം ധരിക്കുന്നു പക്ഷേ ജോലി തന്നെ വളരെ എളിമയുള്ള ഒരു തസ്തികയാണ് പക്ഷേ നിങ്ങൾക്ക് ജോലി വേണം അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥാനത്തിനനുസരിച്ചല്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഉള്ള സ്ഥാനത്തിനനുസരിച്ചല്ല കുറച്ച് ചെയ്യേണ്ടതും തുടർന്ന് അഭിമുഖങ്ങൾക്കുള്ള ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വവും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം പോലെയായിരിക്കണം അത് അതിനാൽ ഇസ്തിരിവെച്ച വസ്ത്രങ്ങൾ വൃത്തിയാക്കുക നിങ്ങൾക്ക് പ്രിയപ്പെട്ട വസ്ത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വികാരമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യ വസ്ത്രമാണ് അതിനാൽ ഇത് ധരിക്കുക പക്ഷേ അത് വളരെ വൃത്തിയുള്ളതായിരിക്കണം തുടർന്ന് അത് ഇസ്തിരിയിടുകയും അതിൽ ധാരാളം ചുളിവുകൾ ഉണ്ടാകാതിരിക്കുകയും വേണം നിങ്ങൾ പൊരുത്തപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിച്ചാലും അത് ലളിതമായ പൊരുത്തമുള്ളതായിരിക്കണം അത് വളരെ തിളങ്ങുന്ന നിറങ്ങളല്ല ചുവപ്പും മഞ്ഞയും പോലെ ഉപയോഗിക്കരുത് അതിനാൽ തിളക്കമാർന്നതും വിനാശകരവുമായ അത് ഒഴിവാക്കുക വൃത്തിയുള്ള പോളിഷ് ചെയ്ത കൺസർവേറ്റീവ് ഷൂകൾ വൃത്തിയുള്ളതും വൃത്തിയുള്ളതുമായ ഹെയർസ്റ്റൈൽ ഉപയോഗിക്കണം അഭിമുഖത്തിന് കുറഞ്ഞത് ഒരാഴ്ച മുമ്പെങ്കിലും പുതിയ മുടി മുറിക്കുന്നത് അഭികാമ്യമാണ് കാരണം നിങ്ങൾ മേശപ്പുറത്ത് വെക്കുമ്പോൾ വിരൽ നഖങ്ങൾ ചിലപ്പോൾ വൃത്തിയാക്കുന്നു അതിനാൽ അത് വളരെ പൊടിപടലമായിരിക്കുകയും പിന്നീട് അത് അമിതമായി വളരുകയും ചെയ്താൽ അത് നിങ്ങൾ നല്ല പെരുമാറ്റം പാലിക്കുന്നില്ലെന്നും നിങ്ങളുടെ ശരീരഘടനയെയും ശുചിത്വത്തെയും കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലെന്നും കാണിക്കുന്നു പല്ലുകൾ വൃത്തിയാക്കുക അതിനാൽ നിങ്ങൾ പല്ലുകൾ ശരിയായി ബ്രഷ് ചെയ്യണം അവിടെ ഭക്ഷ്യവസ്തുക്കൾ ഒട്ടിപ്പിടിക്കുകയും മണക്കുകയും ചെയ്യരുത് ഉചിതമായ ആക്സസറികൾ ഉചിതമായ ആക്സസറികളെക്കുറിച്ചുള്ള നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിനകം കുറച്ച് സമയം ചെലവഴിച്ചു ഉചിതമായവ ഉപയോഗിക്കുക മേക്കപ്പ് ലളിതമായിരിക്കണം അത് കുറഞ്ഞ കൊളോണിനെയോ പെർഫ്യൂമിനെയോ വ്യതിചലിപ്പിക്കരുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ അത് ഒരു സ്ത്രീ സുഗന്ധദ്രവ്യമാണെന്ന് സൂചിപ്പിക്കുന്നവ ഉപയോഗിക്കുക തിരിച്ചല്ല അഭിമുഖങ്ങൾക്കുള്ള ഡ്രസ് കോഡിന്റെ കാര്യത്തിൽ ഈ റണ്ണേഴ്സ് ജെർക്കിൻസ് ഉപയോഗിക്കരുത് തുടർന്ന് നിങ്ങൾ ജിമ്മിൽ നിന്ന് വരുന്നതുപോലെ നിങ്ങൾ ജിം ജീൻസ് ടി ഷർട്ടുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളുമായി പോകുന്നു പ്രത്യേകിച്ച് വളരെ വിനാശകരമായ അടിക്കുറിപ്പുകളുള്ള ടി ഷർട്ടുകൾ ആഭരണങ്ങൾ വീണ്ടും ഞാൻ മുൻ പ്രഭാഷണങ്ങളിൽ കുറച്ചുകാലം ചെലവഴിച്ചു അതിനാൽ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ആഭരണങ്ങൾ എന്തുതന്നെയായാലും ശക്തമായ പെർഫ്യൂം ഒഴിവാക്കണം ശക്തമായ ആഫ്ടർ ഷേവ് പോലും ഒഴിവാക്കണം മദ്യത്തിന്റെ മണം അതിനാൽ നിങ്ങൾ പരിഭ്രാന്തരാണ് അതിനാൽ ഞാൻ ഒരു ചെറിയ പെഗ് എടുക്കുമെന്ന് നിങ്ങൾ പൊതുവെ കരുതുന്നു പക്ഷേ നിങ്ങൾ ആളുകളിൽ പ്രവേശിക്കുന്ന നിമിഷം വെളുത്തുള്ളിയും സിഗരറ്റും ഉപയോഗിച്ച് അതേ മണം മണക്കാൻ കഴിയും കൂടാതെ ഉള്ളിൽ ഒരു വ്യക്തി അംഗമുണ്ടെന്ന് സങ്കൽപ്പിക്കുക പുകവലി അല്ലെങ്കിൽ ചായയോ കാപ്പിയോ കഴിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ടീ ടോട്ടലർ അതിനാൽ നിങ്ങൾ പ്രവേശിക്കുന്ന നിമിഷം തന്നെ ഈ കാര്യത്തോട് വിമുഖത കാണിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു മോശം വ്യക്തിയാണെന്ന് മാനസികമായി ആ സ്വാധീനം സൃഷ്ടിക്കുന്നു നിങ്ങൾ ശരിക്കും നല്ലവനും ശരിക്കും ബുദ്ധിമാനും ജോലിയ്ക്ക് ഏറ്റവും അനുയോജ്യനുമായിരിക്കാമെങ്കിലും നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുതന്നെ നിങ്ങൾ ഇതിനകം തന്നെ ഒരു നെഗറ്റീവ് മതിപ്പ് സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഞാൻ ചിത്രത്തിൽ ഇട്ടതുപോലെ ഒരു വിചിത്രമായ ഹെയർസ്റ്റൈലിനായി പോകരുത് അതുപോലെ വ്യത്യസ്ത നിറങ്ങളിൽ പോളിഷ് ചെയ്ത നെയിൽ പോളിഷ് ചെയ്ത വ്യത്യസ്ത തരം വളയങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക തുടർന്ന് ആ കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ സമപ്രായക്കാർക്കും വീണ്ടും ഫാഷനായി കാണപ്പെടുന്നു പക്ഷേ അഭിമുഖത്തിൽ ഇരിക്കുന്ന യാഥാസ്ഥിതിക തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയല്ല അപ്പോൾ നോൺ വെർബൽ ബ്ലോക്കറുകൾ ഒഴിവാക്കുക അവ യഥാർത്ഥത്തിൽ നോൺ വെർബൽ ആശയവിനിമയം വളരെ ഫലപ്രദമായി ഉപയോഗിക്കണം പക്ഷേ ചില സാധനങ്ങൾ ആക്സസറികൾ ഉപയോഗിക്കരുത് അങ്ങനെ അവ ബ്ലോക്കറുകളായി പ്രവർത്തിക്കും അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ സൺഗ്ലാസുകൾ ധരിക്കുന്നതിനെക്കുറിച്ചും ഫങ്കി അടിക്കുറിപ്പുകളുള്ള തൊപ്പി ധരിച്ച് അത് പുറത്തെടുക്കാൻ വിസമ്മതിക്കുന്നതിനെക്കുറിച്ചും അവർ നിഷേധാത്മകമായ അഭിപ്രായം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് ഫയലുകൾ കൊണ്ടുപോകാൻ ഷോപ്പിംഗ് ബാഗുകൾ ഉപയോഗിച്ച് അസുഖകരമായ പുതിയ വസ്ത്രം ധരിച്ച് പൂർണ്ണമായ കറുപ്പും ഇരുണ്ടതുമായ വസ്ത്രം ധരിക്കുന്നു അതിനാൽ ഫയലുകൾ വളരെ വൃത്തിയുള്ളതും ഗംഭീരവുമായിരിക്കണം നിങ്ങൾക്ക് അത് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരിക്കണം അത് വളരെ പ്രൊഫഷണലായി കാണപ്പെടും എന്നാൽ ഉപയോഗിച്ച ഷോപ്പിംഗ് ബാഗുകൾക്ക് ചില ബ്രാൻഡ് നാമമുണ്ട് തുടർന്ന് അത് വീണ്ടും അവിടെ വയ്ക്കുന്നത് അഭിമുഖം നടത്തുന്ന ദിവസം വളരെ പ്രൊഫഷണലല്ലാത്ത ഒരു രൂപം നൽകുന്നു അഭിമുഖം ഇന്ന് ആണെന്ന് നിങ്ങൾ ഓർക്കുന്നു തുടർന്ന് നിങ്ങൾ പോയി വളരെ പ്രൊഫഷണലല്ലാത്ത രൂപം നൽകുന്ന ഒരു അടുത്ത ഹെയർകട്ട് ചെയ്യാൻ തിരക്കുകൂട്ടുന്നു നിങ്ങൾ വാതിലിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിജയത്തിന്റെ താക്കോലുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിനെ വീണ്ടും ശുദ്ധീകരിക്കുക എല്ലാ നിഷേധാത്മക സംസാരങ്ങളും നിർത്തി നിങ്ങളുടെ ബീപ്പറും സെൽ ഫോൺ മൊബൈൽ ഫോണും ഓഫ് ചെയ്യുക സാധ്യമെങ്കിൽ ശബ്ദമില്ല അത് ആരുടെയെങ്കിലും കൂടെ പുറത്തേക്ക് വിടുക അല്ലെങ്കിൽ പൂർണ്ണമായും സ്വിച്ച് ഓഫ് മോഡിൽ സൂക്ഷിക്കുക അവർ നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയും നിങ്ങളുടെ മൊബൈൽ റിംഗ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ആക്സസറിയായി പ്രദർശിപ്പിക്കുന്ന ഏറ്റവും മോശം ശരീരഭാഷയാണിത് അതിനാൽ അത് നിങ്ങളുടെ അഭിമുഖത്തിനുള്ള മരണവാർത്തയാണെന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ മൊബൈൽ റിംഗ് ചെയ്യുന്നത് തുടരുകയും ആ വ്യക്തിക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയും അഭിമുഖത്തിന് മുമ്പ് മൊബൈൽ നിശബ്ദ മോഡിൽ പോലും സൂക്ഷിച്ചിട്ടില്ല എന്ന വസ്തുതയിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരാളെ ആരും ആഗ്രഹിക്കുന്നില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിമുഖ നിമിഷമാണ് ആ സമയത്ത് അഭിമുഖത്തേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ല ആരുടെയെങ്കിലും അപകടത്തെക്കുറിച്ചോ മറ്റെന്തെങ്കിലുമോ അടിയന്തിര കോൾ പോലും ഇല്ല അഭിമുഖം വേഗത്തിൽ പൂർത്തിയാക്കാനും തുടർന്ന് ഏതെങ്കിലും കോളുകളിൽ പങ്കെടുക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അത്ര പ്രധാനമല്ല പക്ഷേ അതിനുമുമ്പല്ല നിങ്ങൾ ശരിയായ ചോയ്സ് ആണെന്ന് നിങ്ങളുടെ ആദ്യ വാക്ക് പറയുന്നതിന് മുമ്പ് അവരെ അറിയിക്കുക അവർ ചോദിക്കുന്നതിന് മുമ്പുതന്നെ ഞാൻ ശരിയായ സ്ഥാനാർത്ഥിയാണെന്ന് അവരെ കാണിക്കാൻ നിങ്ങൾ പുഞ്ചിരിക്കുന്ന ആത്മവിശ്വാസം വികിരണം ചെയ്യുന്നതെങ്ങനെ അതിനാൽ ആ ആത്മവിശ്വാസം വികിരണം ചെയ്യുന്ന വികാരം അവർക്ക് നൽകുക അതുവഴി ഇത് വളരെ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്നും അവർ നിങ്ങളെ എളുപ്പത്തിൽ നിഷേധിക്കാൻ ശ്രമിക്കില്ലെന്നും അവർക്ക് തോന്നും വിജയകരമായ അഭിമുഖത്തിന്റെ ശരീരഭാഷ ഭാഗം നിങ്ങൾ സ്വയം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ഒരു നല്ല വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് നിങ്ങൾ വളരെ സൌഹാർദ്ദപരമായിരിക്കണം എന്നാൽ അതേ സമയം നിങ്ങൾ പ്രൊഫഷണലായി കാണണം അഭിമുഖത്തിലുടനീളം നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കൈ കുലുക്കുമ്പോൾ ശരീരഭാഷയിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെന്ന് ഭയപ്പെടരുത് അതിനാൽ വളരെ പരിഭ്രാന്തരാകരുത് നിങ്ങൾ പോയി ഇരിക്കുമ്പോൾ ഇരിക്കാൻ നിങ്ങൾ അനുമതി ചോദിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് അനുമതിയില്ലാതെ പോയി ഇരിക്കാൻ പോലും കഴിയില്ല കൈ കുലുക്കുന്ന കാര്യത്തിൽ ഉറച്ച കൈ കുലുക്കുന്നത് ഉചിതമാണ് അത് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ കൈ കുലുക്കുമ്പോൾ നിങ്ങൾ കണ്ണുമായി സമ്പർക്കം പുലർത്തണം നിങ്ങൾക്ക് കൈ കുലുക്കുന്ന സമയത്ത് മറ്റേ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കണം നിങ്ങൾക്ക് നേത്ര സമ്പർക്കം നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലളിതമായ സാങ്കേതികവിദ്യ പരീക്ഷിക്കാം അതായത് നിങ്ങൾ കൈ കുലുക്കുമ്പോൾ വ്യക്തിയുടെ കണ്ണുകളുടെ നിറം ശ്രദ്ധിക്കുന്നതിലും ഓർമ്മിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം കണ്ണുമായി സമ്പർക്കം പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ചെറുതായി മുകളിലേക്ക് പോയി നെറ്റിയിൽ നോക്കുക എന്നതാണ് നിർദ്ദേശിക്കപ്പെടുന്ന മറ്റൊരു രീതി അതിനാൽ അത് എന്നാൽ നിങ്ങൾ അത് നിലനിർത്തേണ്ടത് പ്രധാനമാണ് നിങ്ങൾ ഈ വശത്തോ ആ വശത്തോ നോക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ മുകളിലേക്കോ താഴേക്കോ നോക്കരുത് നിങ്ങൾ തിരിഞ്ഞുനോക്കരുത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും ഈ ചത്ത മത്സ്യത്തിനോ നക്കിൾ ഗ്രൈൻഡർ ഹാൻഡ് ഷേക്കിനോ നൽകരുത് ഇത് ഈ രണ്ട് അതിരുകൾ ആയിരിക്കരുത് ഇത് നിങ്ങൾ ഒരു പ്രൊഫഷണലാണെന്ന് സൂചിപ്പിക്കുന്ന ഈ ഉറച്ച ഹാൻഡ് ഷേക്ക് ആയിരിക്കണം അഭിമുഖത്തിൽ ആംഗ്യങ്ങൾ വളരെ പരിമിതമായിരിക്കണം തുറന്ന ആംഗ്യങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ അങ്ങേയറ്റത്തെ ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വിജയസാധ്യതയുടെ കാര്യത്തിൽ വിനാശകരവും വിനാശകരവുമാണ് അതിനാൽ നിങ്ങൾ ചെറുതാക്കുന്നു അതിനാൽ നിങ്ങൾ നെഗറ്റീവ് ആംഗ്യങ്ങളൊന്നും ഉപയോഗിക്കരുത് പ്രത്യേകിച്ചും പ്രതിരോധ ആംഗ്യങ്ങൾ ഒഴിവാക്കുക ഹാൻഡ്ബാഗ് നടുവിൽ വയ്ക്കുകയോ പേന ഉപയോഗിച്ച് കളിക്കുകയോ ചെയ്യുക അതിനാൽ ഇവയെല്ലാം പരിഭ്രാന്തിയും പ്രതിരോധശേഷിയും സൂചിപ്പിക്കുന്നു നിങ്ങൾ ആംഗ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവ സ്വാഭാവികവും അർത്ഥപൂർണ്ണവുമാണെന്ന് ഉറപ്പാക്കുക അതിനാൽ ഉദാഹരണത്തിന് നമസ്തേ വളരെ അർത്ഥവത്തായ ഒന്നാണ് നിങ്ങൾ പോയി തുടക്കത്തിൽ തന്നെ നമസ്തേ പറയുമ്പോൾ ആളുകൾ വളരെ മതിപ്പുളവാക്കുന്നു ആദ്യ 30 സെക്കൻഡിനുള്ളിൽ വിജയം ഉറപ്പാക്കാൻ ശ്രമിക്കുക ഇടയ്ക്കിടെ നിങ്ങളുടെ തല കുലുക്കുക അവർ നിങ്ങളോട് നിങ്ങളുടെ പേരാണോ എന്ന് ചോദിക്കും അതിനാൽ നിങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ അതിനാൽ സർ പുഞ്ചിരിക്കുകയും ആനിമേഷൻ കാണിക്കുകയും ചെയ്യുന്നതിനുപകരം നിങ്ങൾ തല കുലുക്കുകയും ചെയ്യുക അതിനാൽ ആ ആനിമേറ്റഡ്നെസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മിതമായ നിരക്കിൽ സംസാരിക്കുന്ന ആളിനോട് പ്രതികരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുകയും തുടർന്ന് ഉറപ്പുനൽകുന്ന സ്വരം ഉപയോഗിക്കുകയും ചെയ്യും കാരണം അവർ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകാലത്തേക്ക് ആശയക്കുഴപ്പം തോന്നുന്നുണ്ടോ അതോ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലേ എന്നതാണ് അതിനാൽ അത് വീണ്ടും അവർക്ക് അൽപ്പം സംശയമുണ്ടാക്കും അതിനാൽ എല്ലായ്പ്പോഴും ഉറപ്പുനൽകുന്ന സ്വരം ഉപയോഗിക്കുക അതിനാൽ അവർ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ഒരു വെല്ലുവിളി നിറഞ്ഞ ഒന്നാണെന്ന് തോന്നുമെങ്കിലും അതെ സർ അത് സാധ്യമാണെന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഉടനടി ഇല്ല എന്ന് പറയുന്നതിനുപകരം അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കും അതിനാൽ ഒരു അഭിമുഖത്തിൽ ഈ നല്ല ആദ്യ മതിപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും ആ ഉറപ്പുള്ള മോഡിൽ ആയിരിക്കുക പ്രത്യേകിച്ച് ശരീരഭാഷയുടെ കാര്യത്തിൽ കമ്പനിയുടെ മൂല്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ഗവേഷണം നടത്തണം ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയുന്നതുപോലെ ഇപ്പോൾ വസ്ത്രങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നു അതിനാൽ നടപ്പിലാക്കുന്ന ഡ്രസ് കോഡ് എന്താണെന്നും അതിനുശേഷം അനുയോജ്യമായ വസ്ത്രം എന്തായിരിക്കുമെന്നും കണ്ടെത്തുക അതിനാൽ ഉദാഹരണത്തിന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാം സാരികൾ ആയിരിക്കണമെന്ന് കമ്പനി പറയുന്നു അതിനാൽ കമ്പനിയിൽ ഇഷ്ടപ്പെടുന്നതിന് സമാനമായ ഒരു സാരിയിൽ പോകുന്നതാണ് നല്ലത് അതിനാൽ നിങ്ങൾ ഇതിനകം തയ്യാറായ ജോലിക്കായി വരുമ്പോൾ നിങ്ങൾ ഏതുതരം വസ്ത്രമാണ് ധരിക്കുകയെന്ന് ചിന്തിക്കേണ്ടതില്ലെന്ന് അവർക്ക് ഒരു നല്ല ധാരണ നൽകും തുടർന്ന് അവർ അവരുടെ തീരുമാനത്തിന്റെ 90 ശതമാനവും രൂപഭാവത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രത്യേകിച്ച് അവർ ആദ്യ 30 സെക്കൻഡിൽ അത് ചെയ്യുന്നു ആ ആദ്യ 30 സെക്കൻഡിൽ നിങ്ങളുടെ കമ്പനിയുടെ മൂല്യം എനിക്കറിയാം എന്ന ധാരണ നിങ്ങൾ അവർക്ക് നൽകുന്നു ഞാൻ വസ്ത്രം ധരിക്കുന്ന രീതിയിൽ ഞാൻ അതിനെ വിലമതിക്കുന്നു അതിനാൽ അത് വളരെ ആകർഷകമായ ഒരു മതിപ്പ് സൃഷ്ടിക്കുന്നു മറ്റൊരു പ്രധാന കാര്യം ഈ ആവേശവും കണ്ണ് സമ്പർക്കവും കണ്ണുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയും എല്ലായ്പ്പോഴും താൽപ്പര്യമുള്ള ആവിഷ്കാരം നിലനിർത്തുന്നതിലൂടെയും നിങ്ങളുടെ ആവേശം കാണിക്കുന്നു മൂക്കിലോ നെറ്റിയിലോ നേരിട്ട് കണ്ണ് സമ്പർക്കം നിലനിർത്താൻ നാണക്കേട് തോന്നുകയും എന്നാൽ ഞാൻ സാധാരണയായി നോൺ വെർബൽ ആശയവിനിമയത്തിൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ ചെലവഴിക്കുമ്പോൾ അത് വീണ്ടും നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെയും ശക്തിയുടെയും ഒരു സൂചന നൽകുന്നു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉയരത്തിൽ നടക്കണം മിക്കവരും ഉയരത്തിൽ ഇരിക്കണം എന്ന അർത്ഥത്തിൽ ആലങ്കാരിക അർത്ഥത്തിൽ നിങ്ങൾ ആത്മവിശ്വാസമുണ്ടെന്ന് കാണിക്കുന്നു നിങ്ങൾ ഇരിക്കുന്ന രീതിയിൽ നടക്കുമ്പോഴെല്ലാം നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരാണെന്ന് കാണിക്കുക നിങ്ങളുടെ ഭാവം നിങ്ങൾ അവിടെ നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായും പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് കാണിക്കണം നമുക്ക് അഭിമുഖത്തിന് മുമ്പുള്ള ഒരു ചെക്ക്ലിസ്റ്റ് എടുക്കാം അനുയോജ്യമായ വസ്ത്രധാരണം പ്രധാനമാണ് നല്ല ഭാവം നിലനിർത്തുക നടക്കുക മുതൽ ഇരിക്കുക വരെ പുഞ്ചിരിക്കുകയും പുഞ്ചിരിയിലൂടെ ആത്മവിശ്വാസം വികിരണം ചെയ്യുകയും ചെയ്യുക ഒരു ഉറച്ച ഹാൻഡ്ഷേക്ക് ശാന്തമായ പെരുമാറ്റം നിങ്ങൾ ഉടനീളം ദേഷ്യപ്പെടരുത് നിങ്ങൾ പ്രകോപിതരാകരുത് നിങ്ങൾ അക്രമാസക്തമായി പ്രതികരിക്കരുത് അതിനാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രണ്ടുതവണ അനുമതി എടുക്കുക വാതിൽ അടച്ചിട്ടുണ്ടോ എന്ന് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വാതിലിൽ മുട്ടുകയും ഞാൻ അകത്തേക്ക് വരാമോ എന്ന് ചോദിക്കുകയും തുടർന്ന് നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയും മുറിയിലെ എല്ലാവരേയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുക സുപ്രഭാതം മാഡം സുപ്രഭാതം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ പോയി സ്ഥാനാർത്ഥിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന കസേരയ്ക്ക് മുന്നിൽ ഇരിക്കാൻ അനുമതി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇരിക്കട്ടെ പിന്നെ അവർ അതെ എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾ നന്ദി പറയട്ടെ നന്ദി മാഡം നിങ്ങൾ കസേര വലിക്കുമ്പോൾ അത് നിങ്ങളുടെ അടുത്തേക്ക് വലിക്കേണ്ടിവന്നാൽ ശബ്ദമുണ്ടാക്കാതെ സൌമ്യമായി വലിക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു വാസ്തവത്തിൽ ക്ലൈമാക്സിലേക്ക് ഒരു ത്രില്ലർ കാണുമ്പോൾ നിങ്ങൾ യാന്ത്രികമായി സീറ്റിന്റെ മുൻവശത്തേക്ക് വരുന്നു ആ സിനിമ കാണാൻ നിങ്ങൾക്ക് വളരെ താൽപ്പര്യമുണ്ടെന്ന് കാണിക്കുന്നു തുടക്കം മുതൽ അവസാനം വരെ കണ്ണുമായി സമ്പർക്കം പുലർത്തുന്നു മാന്യമായി ഉറച്ച ഹസ്തദാനം നടത്തുകയും പുഞ്ചിരിക്കുകയും ചെയ്യുക ഉടനീളം ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്യുക അവർ വളരെ അക്രമാസക്തരാണെങ്കിൽ അവരുടെ നല്ല ശരീരഭാഷയെ പ്രതിഫലിപ്പിക്കുകയും അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങൾ വളരെ മര്യാദയുള്ള ഒരാളെ കണ്ടാൽ അവരുടെ ശരീരഭാഷ ആവർത്തിക്കാൻ ശ്രമിക്കുക സാധാരണയായി അവർ പറയുന്നു നിങ്ങൾ മറ്റൊരാളുടെ ശരീരഭാഷ ആവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുവെന്നും ആ വ്യക്തി യാന്ത്രികമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നും സൂചിപ്പിക്കുന്നു എന്താണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പെട്ടെന്ന് വീണ്ടും നോക്കേണ്ടത് കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ചവയ്ക്കരുത് ഇത് നിങ്ങൾ അഹങ്കാരിയാണെന്നും നിങ്ങൾക്ക് പുകവലിക്കാതിരിക്കാനോ പുകവലിക്ക് ശേഷം ഉടൻ പോകാതിരിക്കാനോ അഭിമുഖം വളരെ പ്രധാനമാണെന്ന് അറിയില്ലെന്നും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ പേന ഉപയോഗിച്ച് കളിക്കുന്നതും നിങ്ങളുടെ വാച്ച് ഉപയോഗിച്ച് കളിക്കുന്നതും നിങ്ങളുടെ താക്കോലുകൾ അഴിച്ച് കളിക്കുന്നതും നിഷേധിക്കുന്നതും പോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രദ്ധ വ്യതിചലിപ്പിക്കരുത് വാസ്തവത്തിൽ പല അഭിമുഖങ്ങളും അവർ നിങ്ങൾക്ക് കാപ്പിയോ പാനീയമോ വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ എത്ര തണുപ്പാണെന്ന് കാണാൻ അവർ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ അത് എടുക്കുമ്പോൾ അവർക്ക് അത് നിങ്ങളുടെ വസ്ത്രത്തിൽ ഒഴിക്കാനും നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാണാനും കഴിയും അല്ലെങ്കിൽ നിങ്ങൾ അത് കുടിക്കുമ്പോൾ അവർക്ക് പ്രശ്നകരമായ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ അത് വളരെ ചൂടായിരിക്കാം തുടർന്ന് നിങ്ങൾ അത് എടുത്തുവെന്ന് അറിയാതെ നിങ്ങൾ അത് പുറത്തേക്ക് തെറിപ്പിച്ചു തുടർന്ന് അത് ആരുടെയെങ്കിലും മുഖത്ത് വീണു ഇപ്പോൾ അഭിമുഖ സമയത്ത് അത് എടുക്കാനുള്ള പ്രലോഭനത്തെ നിങ്ങൾ എതിർത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ കഴിയും അത് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുവെങ്കിൽ അഭിമുഖം അവസാനിച്ചതിന് ശേഷം എനിക്ക് അത് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷേ ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്നെ അനുവദിക്കരുത് അതിനാൽ അത് വീണ്ടും ആത്മാർത്ഥമായ ഒരു പ്രൊഫഷണൽ മതിപ്പ് സൃഷ്ടിക്കുന്നു നിങ്ങൾ പോകുന്നതിനുമുമ്പ് ശരീരഭാഷയുടെ അടിസ്ഥാനത്തിൽ അഭിമുഖം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ അത് എങ്ങനെ അവസാനിപ്പിക്കും ഒരിക്കൽ കൂടി കണ്ണ് സമ്പർക്കം പുലർത്തുക നന്ദി പറയുക ഉറച്ച ഹസ്തദാനം നൽകുക എല്ലാ കോർപ്പറേറ്റ് ഓഫീസുകളിലും അവർ ഇന്നത്തെപ്പോലെ ഇല്ലെങ്കിൽ അവർ ഹസ്തദാനം ചെയ്യുന്നു പക്ഷേ അവർ ചെയ്യുന്നില്ലെങ്കിൽ നമസ്തേ പറയുകയും ആത്മവിശ്വാസത്തോടെ പോകുകയും ചെയ്യുക അതിനാൽ പോകുമ്പോൾ തെറ്റ് ചെയ്യുകയോ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് വീഴാൻ അനുവദിക്കുകയോ ചെയ്യരുത് കസേരയെ വീണ്ടും ചവിട്ടരുത് അഭിമുഖത്തിൽ സംഭവിച്ചതെന്തും നിങ്ങൾ പ്രവേശിച്ച തരത്തിലുള്ള ആവേശത്തോടെ അത് സൌമ്യമായി നിങ്ങൾക്ക് വഴിയൊരുക്കുക അത് നിങ്ങൾക്ക് വളരെ മോശമായിപ്പോയെങ്കിലും അതിൽ നിങ്ങൾ നിരാശരാണ് എന്നാൽ നിങ്ങൾ പുറത്തുപോകുന്നതുവരെ നിങ്ങൾ അതേ ഉത്സാഹത്തോടെ പോകുന്നു കാരണം അവർ ഇപ്പോഴും ശ്രദ്ധിക്കുന്നു അവർ നിങ്ങളെ ഒരു വിജയകരമായ സ്ഥാനാർത്ഥിയല്ലെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു പരാജയമായിരിക്കും പക്ഷേ ശരീരഭാഷയുടെ കാര്യത്തിൽ നിങ്ങൾ പരാജയത്തെ എങ്ങനെ എടുക്കുന്നുവെന്ന് കാണാനും അവർ ആഗ്രഹിക്കുന്നു അതിനാൽ അത് മോശമായി പോയെങ്കിലും നിങ്ങൾ അത് ആത്മവിശ്വാസത്തോടെ എടുത്തുവെന്ന് അവരെ കാണിക്കുക എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ആവേശഭരിതരാണ് ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗം ആളുകളെ ആകർഷിക്കുമെന്ന് അറിയുകയും അത് നിങ്ങളെ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്തേക്കാം അഭിമുഖത്തിൽ വിജയം നേടുന്നതിന് ശരീരഭാഷ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ ചിന്തയോടെ ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ശരിയായ മാനസികാവസ്ഥയോടും ശരിയായ ശരീരഭാഷയോടും കൂടി ഒരു അഭിമുഖത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ശരിയായ സമയത്ത് ശരിയായ ജോലി ലഭിക്കും അതിനാൽ നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളിലും നിങ്ങൾക്ക് വിജയം നേരുന്നു അതിനാൽ വിജയം നേടാൻ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കാതിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കണ്ടതിന്